ഹലോ പോസ്റ്റ്കൊളോണിയൽ സാഹിത്യത്തെക്കുറിച്ചുള്ള അവസാനത്തെ ലക്ചറിലേക്ക് സ്വാഗതം കഴിഞ്ഞ പത്തൊൻപത് ലക്ചറുകൾ നിങ്ങളെ അറിയിച്ച പോലെ പോസ്റ്റ്കൊളോണിയൽ പഠനങ്ങളുടെ ആത്മാവിനെ ശക്തമായി അറിയിക്കുന്നത് സ്ഥാപിക്കപ്പെട്ടതായി ഹെജിമോണിക് ആയി കണക്കാക്കപ്പെടുന്നതെന്തും ചോദ്യം ചെയ്യുവാനുള്ള വിമർശിക്കുവാൻ ഉള്ള പൊളിച്ച് മാറ്റുവാനുള്ള അഭിവാഞ്ഛയാണ് ഇപ്പോൾ എഡ്വേഡ് സയ്യ്ദിൻറെ പ്രധാന പുസ്തകമായ ഓറിയൻറെലിസം പ്രസിദ്ധീകരിച്ചിട്ട് ഏകദേശം നാൽപത് വർഷം ആയിരിക്കുന്നു ഇത് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ 1978 ലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഈ നാല് ദശകങ്ങളിൽ സയ്യ്ദിൻറെ പുസ്തകം കൊണ്ടുവന്ന പോസ്റ്റ്കൊളോണിയൽ പഠന മേഖല അക്കാദമിക വ്യവസ്ഥിതിയുടെ ഭാഗമായിത്തീർന്നു ഇന്ന് ഒരു വലിയ പരിധി വരെ അത് ഹ്യൂമാനിറ്റീസിൽ മുഖ്യധാരാ വ്യവഹാരത്തെ രൂപപ്പെടുത്തുന്നു അതിനാൽ ഈ ലക്ചറിൽ പോസ്റ്റ്കൊളോണിയൽ പഠന മേഖലയെ അറിയിക്കുന്ന വിമർശനാത്മക പൊളിച്ചെഴുത്തിൻറെ ചൈതന്യം ഈ മേഖലയോട് തന്നെ പ്രയോഗിക്കുവാൻ പോകുന്നു അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു പുതിയ കാഴ്ചപ്പാട് പുതിയ വിമർശനാത്മക നിലപാട് നേടാൻ കഴിയുമോ എന്ന് പരിശ്രമിക്കാം ഇപ്പോൾ ഈ ലക്ചറിൻറെ തലക്കെട്ട് പോസ്റ്റ്കൊളോണിയൽ ഫ്യൂച്ചേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ പോസ്റ്റ്കൊളോണിയൽ പഠനങ്ങൾ നടത്തുന്ന ചില വിമർശകരുടെ അഭിപ്രായത്തിൽ ഈ മേഖലയ്ക്ക് ഭാവിയില്ല പോസ്റ്റ്കൊളോണിയൽ പഠനങ്ങളുടെ ഈ മരണം പോസ്റ്റ്കൊളോണിയൽ സ്റ്റഡീസ് രംഗത്ത് ഹോളി ട്രിനിറ്റികളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ഗായത്രി ചക്രവർത്തി സ്പിവാക് ആണ് പ്രഖ്യാപിച്ചത് ഉദാഹരണത്തിന് സ്പിവക് 2013 ൽ പോസ്റ്റ്കൊളോണിയലിസത്തെ പഴയകാലത്തേക്ക് തരംതാഴ്ത്തി അവരെ ഞാൻ ഉദ്ധരിക്കുന്നു ഇതാണ് സ്പിവക് "പോസ്റ്റ്കൊളോണിയൽ ഇന്നലെയുടെ തലേദിവസമാണ് " അതിനാൽ തൻറെ പേരിൻറെ പര്യായമായ പോസ്റ്റ്കൊളോണിയലിസത്തിൽ നിന്ന് സ്പിവക് സ്വയം അകലം പാലിക്കാൻ വ്യക്തമായി ശ്രമിക്കുന്നു സ്പിവക് ത്യജിച്ചതിനുശേഷവും പോസ്റ്റ്കോളോണിയൽ എന്ന പദം പതിവായി അക്കാദമിക് ജേണലുകൾ മോണോഗ്രാഫുകൾ യൂണിവേഴ്സിറ്റി കോഴ്സുകൾ ഈ കോഴ്സ് ഉൾപ്പെടെ പലയിടത്തും പ്രത്യക്ഷപ്പെടുന്നു നമ്മുടെ കോഴ്സ്സിൻറെ തന്നെ പേര് പോസ്റ്റ്കൊളോണിയൽ സാഹിത്യം എന്നാണല്ലോ ഇത് 2017 ആണ് 2013 ൽ തന്നെ പോസ്റ്റ്കൊളോണിയലിസത്തിൻറെ മരണം സ്പിവക് പ്രഖ്യാപിക്കുകയായിരുന്നു വാസ്തവത്തിൽ ഞാൻ സ്പിവാക്കിൻറെ ഉദ്ധരണി കടമെടുത്തത് കൊളോണിയലിസംപോസ്റ്റ്കൊളോണിയലിസം ColonialismPostcolonialism എന്ന തലക്കെട്ടിൽ പോസ്റ്റ്കൊളോണിയൽ പഠന മേഖലയെക്കുറിച്ചുള്ള അനിയ ലൂംബയുടെ പ്രസിദ്ധമായ പുസ്തകത്തിൻറെ ആമുഖത്തിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ച് പതിനേഴ് വർഷത്തിനുള്ളിൽ 2015 ൽ ഈ പുസ്തകം അതിൻറെ മൂന്നാം പതിപ്പിലേക്ക് പോയി ആമുഖ മാനുവലുകൾക്കും പോസ്റ്റ്കൊളോണിയൽ സാഹിത്യപഠനങ്ങളെക്കുറിച്ചുള്ള അക്കാദമിക് കോഴ്സുകൾക്കുള്ള അത്തരം നിരന്തരമായ ആവശ്യം ഈ മേഖല മരിക്കുന്നതിൽ നിന്നും വളരെ അകലെയാണെന്നും അത് പൂർത്തിയാക്കിയെന്നും ആണ് കാണിക്കുന്നത് പോസ്റ്റ്കൊളോണിയലിസത്തിൻറെ നിര്യാണത്തെക്കുറിച്ചുള്ള അത്തരം ഓരോ പ്രഖ്യാപനങ്ങളോടെയും ഈ മേഖല കൂടുതൽ ശക്തമായിത്തീർന്നിരിക്കുന്നുവെന്ന് ഒരാൾ വാദിച്ചേക്കാം പോസ്റ്റ്കൊളോണിയലിസത്തിൻറെ മരണത്തെക്കുറിച്ചുള്ള ഓരോ പ്രഖ്യാപനങ്ങളും പോസ്റ്റ്കൊളോണിയലിസം എന്ന തലക്കെട്ടോടെ ഉള്ള പഠനങ്ങളുടെ വ്യാപനത്തിലേക്ക് നയിച്ചു എന്തുകൊണ്ടാണ് ഇടയ്ക്കിടെ മരിച്ചതായി പ്രഖ്യാപിച്ചിട്ടും പോസ്റ്റ്കൊളോണിയൽ പഠനങ്ങൾ അക്കാദമിക്കുള്ളിൽ ശക്തമായ സാന്നിധ്യമായി തുടരുന്നുത് പോസ്റ്റ്കൊളോണിയൽ പഠനങ്ങളുടെ മരണത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ യഥാർത്ഥത്തിൽ ഈ അക്കാദമിക് മേഖലയുടെ അടിസ്ഥാന പരിസരം എന്ന നിലയിൽ വിമർശനാത്മക ശബ്ദങ്ങൾ പരിഗണിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള സംശയങ്ങളും ചോദ്യങ്ങളും അറിയിക്കുന്നു എന്നിരുന്നാലും ഈ ചോദ്യങ്ങളും സംശയങ്ങളും പോസ്റ്റ്കൊളോണിയൽ പഠനങ്ങളെ അപ്രസക്തമാക്കുന്നതിനുപകരം അതിനെ സഹായിക്കുക അല്ലെങ്കിൽ ഇതുവരെ സഹായിച്ചിട്ടുള്ളത് പുതിയ രൂപങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യുവാനാണ് വാസ്തവത്തിൽ പരിവർത്തനം ചെയ്യാനുള്ള ഈ അവിശ്വസനീയമായ ശേഷി കാരണം പോസ്റ്റ്കൊളോണിയൽ പഠനങ്ങൾ കൃത്യമായി മരിച്ചിട്ടില്ല ഇത് ഇതുവരെ കാണിച്ചിരിക്കുന്നു പോസ്റ്റ്കൊളോണിയൽ പഠന മേഖലയുമായി ബന്ധപ്പെട്ട മിക്കവാറും എല്ലാ പദങ്ങളെയും ചുറ്റിപ്പറ്റിയുള്ള അവ്യക്തത വാങ്ങുന്നതിനുള്ള ഒരു സഹായമാണിത് ഇപ്പോൾ എൻറെ എല്ലാ മുൻ പ്രഭാഷണങ്ങളിലും പോസ്റ്റ്കൊളോണിയലിസവുമായി ബന്ധപ്പെട്ട വിവിധ പദങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഈ അവ്യക്തത നീക്കംചെയ്യാൻ ഞാൻ ശ്രമിച്ചു അതിലൂടെ നിങ്ങൾക്ക് ഒരു വിദ്യാർത്ഥിയെന്ന നിലയിൽ കൂടുതൽ വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടാക്കുവാൻ കഴിയും പക്ഷേ ഈ പ്രഭാഷണത്തിൽ ഞാൻ എൻറെ മുൻപ്രഭാഷണങ്ങളിൽ മനഃപൂർവ്വം ഉപേക്ഷിച്ച അല്ലെങ്കിൽ ഞാൻ മനഃപൂർവ്വം നീക്കം ചെയ്യാൻ ശ്രമിച്ച ചില അവ്യക്തതകൾ ഞാൻ മുൻകൂട്ടി പരിശോധിക്കും ഞാൻ ഇത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്തെന്നാൽ പോസ്റ്റ്കൊളോണിയൽ പഠനങ്ങളുടെ ഭാവി മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ അവ്യക്തത മേഖലകൾ ഉയർത്തിപ്പിടിക്കുന്ന പരിവർത്തന സാധ്യതകളെക്കുറിച്ച് എന്തെങ്കിലും നാം അറിയേണ്ടതുണ്ട് അതിനാൽ പോസ്റ്റ്കൊളോണിയലിസം എന്ന പദം ഉപയോഗിച്ച് നമുക്ക് അന്വേഷണം ആരംഭിക്കാം നിങ്ങൾക്കായി പോസ്റ്റ്കോളോണിയലിസം എന്ന പദം നിർവചിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്ന ഈ ശ്രേണിയിലെ പ്രാരംഭ പ്രഭാഷണങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങിയെത്തിയാൽ നിങ്ങൾ കാണും ഞാൻ പോസ്റ്റ്കോളോണിയലിസം അല്ലെങ്കിൽ കൊളോണിയലിസം എന്ന പദത്തിൻറെ അർത്ഥം ഒരു പ്രത്യേക രീതിയിൽ പരിമിതപ്പെടുത്തി എന്ന് പതിനാറാം നൂറ്റാണ്ട് മുതൽ ചില യൂറോപ്യൻ രാജ്യങ്ങൾ ആരംഭിച്ച കൊളോണിയലിസത്തിൻറെ രൂപം മാത്രമായി ഞാൻ കൊളോണിയലിസം എന്ന പദത്തിൻറെ അർത്ഥം പരിമിതപ്പെടുത്തിയിട്ടുണ്ട് മുതലാളിത്തത്തിന് ലാഭമുണ്ടാക്കുന്ന അനിവാര്യതകളാൽ നയിക്കപ്പെടുന്ന കൊളോണിയലിസത്തിൻറെ ആ രൂപം കണക്കിലെടുക്കാൻ മാത്രമാണ് ഞാൻ ഈ പദത്തിൻറെ അർത്ഥം പരിമിതപ്പെടുത്തിയിരുന്നത് കൊളോണിയലിസത്തെ ഒരു കൂട്ടം മറ്റൊരു കൂട്ടം ആളുകളുടെ ഭൂമിയുടെയും വിഭവങ്ങളുടെയും ശക്തമായ അധിനിവേശമായും നിർവചിക്കാം അത്തരം പ്രവർത്തനങ്ങൾ മനുഷ്യചരിത്രത്തിൽ പണ്ടുമുതലേ നടക്കുന്നു അതിനാൽ പതിനാറാം നൂറ്റാണ്ടിനെ കൊളോണിയലിസത്തിൻറെ വേർതിരിക്കുന്ന തീയതിയായി കാണുന്നത് ആത്യന്തികമായി ഏകപക്ഷീയമാണ് പക്ഷേ എൻറെ പ്രാരംഭ പ്രഭാഷണങ്ങളിൽ ഈ ഏകപക്ഷീയതയെക്കുറിച്ച് ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് കൊളോണിയലിസം എന്ന പദത്തിൻറെ ഉപയോഗം ഞാൻ പരിമിതപ്പെടുത്തുന്ന മറ്റൊരു മാർഗം ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടില്ല ഇപ്പോൾ ആ ഏകപക്ഷീയമായ മാർഗ്ഗത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നു ഇത് പൂച്ചയെ ബാഗിൽ നിന്ന് പുറത്തുവിടുന്നത് പോലെയാണ് ഇപ്പോൾ പോലും കൊളോണിയലിസത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തെ പതിനാറാം നൂറ്റാണ്ടിനു ശേഷമുള്ള ഒരു പ്രതിഭാസമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ വിവിധ തരത്തിലുള്ള കൊളോണിയലിസത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും ഉദാഹരണത്തിന് പതിനാറാം നൂറ്റാണ്ടിലെ പെറുവിലെ സ്പാനിഷ് കൊളോണിയലിസം പതിനെട്ടാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു ഇത് ഇരുപതാം നൂറ്റാണ്ടിലെ എത്യോപ്യയിലെ ഇറ്റാലിയൻ കൊളോണിയലിസത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു എന്നിട്ടും നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ കോഴ്സിൽ നാം കൊളോണിയലിസത്തെ പരാമർശിക്കുമ്പോഴെല്ലാം നമ്മൾ ഈ വൈവിധ്യത്തെ അവഗണിക്കുകയും കൊളോണിയലിസത്തെ വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്തു അത് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ആഫ്രിക്ക കരീബിയൻ ദ്വീപുകൾ എന്നിവിടങ്ങളിലെ ബ്രിട്ടീഷ് കൊളോണിയലിസം മാത്രമാണ് കൊളോണിയലിസം എന്ന പദത്തിൻറെ അത്തരം അവ്യക്തവും പക്ഷപാതപരവുമായ ഉപയോഗം ഞാൻ നടത്തിയ ഈ പ്രഭാഷണങ്ങളിൽ മാത്രമല്ല അത് പോസ്റ്റ്കൊളോണിയൽ പഠനമേഖലയിൽ തന്നെ അത്യന്താപേക്ഷിതമാണ് എഡ്വേഡ് സയ്യദ് തൻറെ ഓറിയൻറെലിസത്തിൽ ഫ്രഞ്ച് കൊളോണിയലിസത്തിൻറെ പശ്ചാത്തലത്തെക്കുറിച്ചും ഫ്രഞ്ച് കൊളോണിയൽ വ്യവഹാരത്തെക്കുറിച്ചും വിശദമായി പറഞ്ഞിട്ടുണ്ട് 2014 ൽ പ്രസിദ്ധീകരിച്ച ഫ്രാങ്കോഫോൺ പോസ്റ്റ്കോളോണിയൽ സ്റ്റഡീസ് എന്ന പുസ്തകത്തിൻറെ ആമുഖത്തിൽ എഡിറ്റർമാരായ ചാൾസ് ഫോർസ്ഡിക്ക് ഡേവിഡ് മർഫി എന്നിവർ ഈ ആംഗ്ലോഫോൺ പക്ഷപാതത്തെ രേഖപ്പെടുത്തുന്നു അത് അവരെ പോസ്റ്റ്കൊളോണിയലിസത്തിൻറെ ഫ്രഞ്ച് അല്ലെങ്കിൽ ഫ്രാങ്കോഫോൺ വശങ്ങൾ എന്ന വസ്തുതയിലേക്ക് നയിച്ചതായും പരാമർശിക്കുന്നു ഇത് തീർച്ചയായും വിമർശനത്തിൻറെ ഒരു പ്രധാന ഭാഗമാണ് പോസ്റ്റ്കൊളോണിയൽ പഠന മേഖലയ്ക്കുള്ളിൽ കൊളോണിയലിസം എന്ന പദത്തെ പക്ഷപാതപരമായി മനസ്സിലാക്കുന്നു പക്ഷേ ഈ വിമർശനം പോസ്റ്റ്കൊളോണിയലിസത്തെ അനാവശ്യമാക്കിയിട്ടില്ല ഈ വിമർശനം ഉണ്ടെങ്കിലും പോസ്റ്റ്കൊളോണിയലിസത്തിന് കൊളോണിയലിസത്തിൻറെ സങ്കീർണ്ണതയെക്കുറിച്ച് 1500 മുതൽ 1950 വരെ നിലനിന്നിരുന്ന വിവിധതരം യൂറോപ്യൻ കൊളോണിയലിസത്തിൻറെ സങ്കീർണ്ണതയെയും വൈവിധ്യത്തെയും കുറിച്ച് ഒരു സൂചനയും ഇല്ല പോസ്റ്റ്കൊളോണിയലിസത്തിൻറെ മേഖല ഇന്നും അനാവശ്യമായിത്തീർന്നിട്ടില്ല വാസ്തവത്തിൽ ഇപ്പോൾ ഈ മേഖല വിവിധ തരത്തിലുള്ള പോസ്റ്റ്കൊളോണിയലിസം ഉൾക്കൊള്ളുന്ന തരത്തിൽ സ്വയം രൂപാന്തരപ്പെട്ടു അതിനാൽ ഇന്ന് പോസ്റ്റ്കൊളോണിയലിസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ആംഗ്ലോഫോൺ പോസ്റ്റ്കൊളോണിയൽ പഠനങ്ങളെക്കുറിച്ച് മാത്രമല്ല മറിച്ച് നമ്മൾ ഒരേസമയം ഫ്രാങ്കോഫോൺ പോസ്റ്റ്കോളോണിയൽ പഠനങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ലുസോഫോൺ പോസ്റ്റ്കൊളോണിയൽ പഠനങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു പോസ്റ്റ്കൊളോണിയൽ പഠനങ്ങളുടെ ഈ വ്യത്യസ്ത തരം ധാരകൾ ലോകത്തിൻറെ വിവിധ ഭാഗങ്ങളിൽ വിവിധ യൂറോപ്യൻ കൊളോണിയൽ ശക്തികൾ കോളനിവത്കരിച്ചപ്പോൾ ഉണ്ടായ വിവിധതരം കൊളോണിയൽ അനുഭവങ്ങൾ കൊളോണിയൽ പാരമ്പര്യങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ പോസ്റ്റ്കൊളോണിയൽ എന്ന പദം ചാൾസ് ഫോർസ്ഡിക്കിൻറെയും ഡേവിഡ് മർഫിയുടെയും പുസ്തകത്തിൻറെ തലക്കെട്ടിൽ തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്നു ഇത് നിലവിലുള്ള പോസ്റ്റ്കൊളോണിയൽ പഠന മേഖലയെ വിമർശിക്കുന്നു ചാൾസ് ഫോർസ്ഡിക്കും ഡേവിഡ് മർഫിയും എഴുതുന്നതുപോലെ അവർ മനഃപൂർവ്വം പോസ്റ്റ്കൊളോണിയൽ പഠന മേഖലയെ ഇല്ലാതാക്കാനല്ല മറിച്ച് ഫ്രാങ്കോഫോണിയുടെ ആംഗിൾ ആ മേഖലയിലേക്ക് പരിചയപ്പെടുത്താനാണ് കൊളോണിയലിസം എന്ന പദം ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള അവ്യക്തതയ്ക്ക് മറ്റൊരു വശമുണ്ട് പരിമിതപ്പെടുത്തുന്നതിലൂടെ അത് ബ്രിട്ടീഷ് കൊളോണിയലിസത്തെ മാത്രം അർത്ഥമാക്കുന്നു ഒരു രാഷ്ട്രീയ സ്ഥാപനം എന്ന നിലയിൽ ബ്രിട്ടീഷ് രാജ് വളരെ മുമ്പ് മരണമടഞ്ഞു എന്നത് ഒരു വസ്തുതയാണ് എങ്കിലും നമുക്ക് കൊളോണിയലിസം ഇന്നും സജീവമാണ് എന്ന വസ്തുതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഇവിടെ കൊളോണിയലിസം ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ ഉദാഹരണത്തിന് സാമ്പത്തിക സൈനിക മാർഗങ്ങളിലൂടെ ലോകത്തിൻറെ വിശാലമായ ഭാഗങ്ങളെ കീഴ്പ്പെടുത്തുന്നത് തുടരുന്ന അമേരിക്കയെപ്പോലുള്ള നവ കൊളോണിയൽ ശക്തികളെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് കൊളോണിയലിസത്തിൻറെ ഈ തുടർച്ചയെക്കുറിച്ച് 2010 ൽ പ്രസിദ്ധീകരിച്ച ഉപമന്യു പാബ്ലോ മുഖർജിയുടെ പോസ്റ്റ്കൊളോണിയൽ എൻവയോൺമെൻറെസ് എന്ന പുസ്തകം നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നു അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്നത് ഞാൻ ഉദ്ധരിക്കുന്നു "പോസ്റ്റ്കൊളോണിയലിലെ പോസ്റ്റ് കൊളോണിയലിസത്തിൻറെ അവസാനത്തെ അല്ല കുറിക്കുന്നത് മറിച്ച് കൊളോണിയലിസത്തിൻറെ ഒരു പ്രത്യേക രീതിയുടെ അവസാനമാണ് അത് ഗിയറുകൾ മാറ്റുകയും മറ്റൊരു ഘട്ടത്തിലേക്ക് പരിണമിക്കുകയും ചെയ്യുന്നു ഇത് അതിനെതിരെ ആഗോള പോരാട്ടങ്ങളിൽ അനുബന്ധമായ മാറ്റത്തിന് കാരണമാകുന്നു " ഇവിടെ വീണ്ടും പരിസ്ഥിതിയുടെ മാനുഷികവും മനുഷ്യേതരവുമായ വശങ്ങളിൽ കൊളോണിയലിസത്തിൻറെ ഈ പുതിയ രൂപത്തിൻറെ സ്വാധീനത്തെക്കുറിച്ച് പഠിക്കുന്നതിലൂടെ മുഖർജി പഴയ പോസ്റ്റ്കൊളോണിയൽ പഠനങ്ങളെ ഇല്ലാതാക്കുന്നില്ല ഇത് പ്രാഥമികമായി യൂറോപ്യൻ കോളനൈസറുകളുടെയും ഒരിക്കൽ യൂറോപ്പ് കോളനിവത്കരിച്ച ലോകത്തിൻറെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നുവരുന്ന പ്രതിരോധത്തിൻറെ പാഠങ്ങളുടെയും വ്യവഹാര വിശകലനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു മറിച്ച് മുഖർജിയുടെ ഇടപെടൽ പോസ്റ്റ്കൊളോണിയൽ പഠനമേഖലയെ അതിൻറെ പരിധി വിപുലീകരിക്കുന്നതിലൂടെ പരിവർത്തനം ചെയ്യുന്നു വാസ്തവത്തിൽ മുഖർജി സ്വയം തിരിച്ചറിയുന്നത് ഒരു പോസ്റ്റ് കൊളോണിയൽ വിരുദ്ധ വിമർശകനായിട്ടല്ല മറിച്ച് അദ്ദേഹം തന്നെ വിളിക്കുന്ന പോസ്റ്റ്കൊളോണിയൽ പഠനത്തിൻറെ രണ്ടാം തരംഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വിമർശകനെന്ന നിലയിലാണ് പോസ്റ്റ് കൊളോണിയൽ പഠനങ്ങളുടെ വിമർശകർ പതിവായി ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രശ്നമുള്ള മേഖലയിലേക്ക് നീങ്ങുന്നു ഓക്സിഡൻറെും ഓറിയൻറെും എന്ന വഴക്കടിക്കുന്ന എതിരാളികളെ നിർമ്മിക്കുന്ന രീതിയുള്ള പോസ്റ്റ്കൊളോണിയൽ പഠന മേഖല ഒരു പ്രശ്നമേഖലയാണ് ഇപ്പോൾ നിരന്തരം യുദ്ധം ചെയ്യുന്ന ബന്ധത്തിൽ എതിർപ്പിനെ നേരിടുന്ന ഒരു ബന്ധത്തിൽ ഓക്സിഡൻറിനെയും ഓറിയൻറിനെയും നോക്കിക്കാണുന്ന അത്തരം ലോകവീക്ഷണം സങ്കീർണ്ണമായ കൊളോണിയൽ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ലളിതമായ ധാരണയാണെന്ന് നിങ്ങൾ സമ്മതിക്കും ഉദാഹരണത്തിന് എല്ലാ ഇന്ത്യക്കാരും യൂറോപ്യൻ കൊളോണിയൽ ഭരണത്തെ എതിർത്തില്ല എല്ലാ യൂറോപ്യന്മാരും കൊളോണിയൽ കീഴ്പ്പെടുത്തൽ പദ്ധതിയെ പിന്തുണയ്ക്കുന്നില്ല ഈ പ്രശ്നം തിരിച്ചറിയാനും പരിഹരിക്കാനുമുള്ള ആഗ്രഹം പോസ്റ്റ്കൊളോണിയൽ പഠനമേഖലയിൽ വീണ്ടും പുതിയ ഗവേഷണ മേഖലകൾ തുറന്നു അതുവഴി ഈ മേഖലയെ പുതിയ രീതികളിൽ പരിവർത്തനം ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് കൊളോണിയൽ ഭരണം ഉയർത്തിപ്പിടിക്കുന്നതിനും നിലനിർത്തുന്നതിനുമായി മധ്യവർഗ ദേശീയവാദികളുടെ വിഭാഗങ്ങൾ ഉൾപ്പെടെ കീഴടക്കിയ ജനസംഖ്യയിലെ വിഭാഗങ്ങൾ യൂറോപ്യൻ കോളനൈസറുമായി എങ്ങനെ സഹകരിച്ചുവെന്ന് പുതിയ ഗവേഷണങ്ങൾ എടുത്തുകാണിക്കുന്നു ഉദാഹരണത്തിന് ഇവിടെ ഞാൻ ബങ്കിം ചന്ദ്ര ചതോപാദ്ധ്യായയെപ്പോലുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് മധ്യവർഗ ദേശീയതയുടെ വ്യവഹാരത്തിന് തുടക്കമിടുകയും ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെന്ന നിലയിൽ ബങ്കിം ചന്ദ്ര ചതോപാദ്ധ്യായയെ കുറിച്ചുള്ള നമ്മുടെ ചർച്ച നിങ്ങൾ ഓർക്കുന്നില്ലേ പൊളിച്ചുനീക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇവിടെ മറ്റൊരു കാര്യം ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഒരു വശത്ത് കൊളോണിയൽ ഭരണം നിലനിർത്തുന്നതിനായി കീഴടക്കിയ ഇന്ത്യക്കാരും കോളനിക്കാരും തമ്മിലുള്ള ഈ സഹകരണം എടുത്തുകാട്ടിയ വിമർശകർ നമുക്കുണ്ട് മറുവശത്ത് ലീലാ ഗാന്ധിയെപ്പോലുള്ള പണ്ഡിതന്മാർ അവരുടെ പുസ്തകമായ അഫെക്റ്റിവ് കമ്മ്യൂണിറ്റിസിൽ ചില യൂറോപ്യന്മാർ കോളനിവത്കൃത പ്രജകളുമായി കൊളോണിയൽ ഭരണത്തിനെതിരെ ഒരു ഐക്യമുന്നണി രൂപീകരിക്കുന്നതിന് എങ്ങനെ സഹകരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനാൽ ചില സന്ദർഭങ്ങളിൽ കൊളോണിയൽ ഭരണം നിലനിൽക്കുന്നതിന് യൂറോപ്യൻ കൊളോണിയൽ യജമാനനുമായി സഹകരിച്ച് കോളനിവത്കൃത പ്രജകളെയും നമുക്ക് കാണാം മറ്റ് സന്ദർഭങ്ങളിൽ കൊളോണിയൽ ഭരണത്തിനെതിരെ പോരാടുന്നതിന് ചില യൂറോപ്യന്മാർ ഇന്ത്യ പോലുള്ള കോളനിവത്കൃത ലോകത്തിൻറെ ചില ഭാഗങ്ങളിൽ കോളനിവത്കൃത പ്രജകളുമായി എങ്ങനെ സഹകരിച്ചുവെന്ന് നമുക്ക് കാണാം അതിനാൽ യൂറോസെൻട്രിസം പൊളിച്ചുമാറ്റുക എന്നതാണ് ഇന്നും പല പോസ്റ്റ്കോളോണിയൽ പണ്ഡിതന്മാരുടെ മുഖ്യ അജണ്ടകളിലൊന്നാണ് ഓക്സിഡൻറും ഓറിയൻറും തമ്മിലുള്ള ബന്ധം കേവല ശത്രുതയായി സങ്കൽപ്പിക്കുന്നതിൽ നിന്ന് പോസ്റ്റ്കോളോണിയൽ പഠന മേഖല ക്രമേണ അകന്നുപോയി കൊളോണിയലിസത്തിൻറെ ചട്ടക്കൂടിനുള്ളിൽ കീഴടക്കുന്നവരും കീഴടക്കപ്പെട്ടവരും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ളതും പരസ്പരം ബന്ധിപ്പിക്കുന്നതുമായ വിവിധ ബന്ധങ്ങളുടെ ശൃംഖലകളെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ വ്യക്തമാകുന്നു പോസ്റ്റ്കൊളോണിയൽ പഠനമേഖലയിൽ മനസ്സിലാകുന്ന ബുദ്ധിജീവിയുടെ പങ്കിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടുകൊണ്ട് ഈ പ്രഭാഷണം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഇവിടെ വീണ്ടും ഒരു പരിധിവരെ അവ്യക്തത നാം അഭിമുഖീകരിക്കുന്നു ഇത് പോസ്റ്റ്കൊളോണിയൽ പഠന മേഖലയെ പ്രതികൂല വിമർശനത്തിന് വിധേയമാക്കുന്നു നമ്മുടെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പോസ്റ്റ്കൊളോണിയൽ പഠനങ്ങൾ ഇംഗ്ലീഷ് സാഹിത്യ വകുപ്പുകളിൽ അന്വേഷണ മേഖലയായി ഉയർന്നു വന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതിനർത്ഥം പോസ്റ്റ്കൊളോണിയൽ പഠനങ്ങൾ പ്രാഥമികമായി സാഹിത്യ വിമർശനവും വ്യവഹാര വിശകലനവുമായി ബന്ധപ്പെട്ടതായിരുന്നു എന്നാണ് എന്നിരുന്നാലും പോസ്റ്റ്കൊളോണിയൽ പഠനങ്ങളുടെ പിതാവായ എഡ്വേഡ് സയ്യദിൻറെ കരിയർ പരിശോധിച്ചാൽ അദ്ദേഹം ഒരു സാഹിത്യ നിരൂപകൻ മാത്രമല്ല നേരിട്ട് കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടണമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയും ആയിരുന്നു എന്ന് കാണാം എഡ്വേർഡ് സെയ്ദ് പലസ്തീൻ ദേശത്ത് ഇസ്രായേലിൻറെ ശത്രുതാപരമായ അധിനിവേശമെന്ന നിലയിൽ കണ്ട ഇസ്രായേൽ ഗാർഡ്ഹൌസിനെതിരെ ഒരു കല്ലെറിഞ്ഞ് പ്രതിഷേധിക്കുന്നതാണ് അദ്ദേഹത്തിൻറെ ഏറ്റവും ശ്രദ്ധേയമായ ഫോട്ടോ ഇന്ന് ഒരു സാഹിത്യ നിരൂപകനെന്ന നിലയിലും ആക്ടിവിസ്റ്റ് എന്ന നിലയിലും അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നു എന്നിരുന്നാലും പോസ്റ്റ്കൊളോണിയൽ പഠനത്തിൻറെ അവസ്ഥയെക്കുറിച്ചുള്ള സർവേയിൽ ഗ്രഹാം ഹഗ്ഗൻ സൂചിപ്പിക്കുന്നുണ്ട് 2008 ലെ അദ്ദേഹത്തിൻറെ ഇൻറെർ ഡിസിപ്ലിനറി മെഷേഴ്സ് ലിറ്ററേച്ചർ ആൻഡ് ദി ഫ്യൂച്ചർ ഓഫ് പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസ് Interdisciplinary Measures Literature and the Future of Postcolonial Studies എന്ന പുസ്തകത്തിൻറെ ആമുഖത്തിൽ സാഹിത്യത്തിൻറെ മൂല്യം ഈ മേഖലയ്ക്കുള്ളിൽ നിരന്തരം കുറഞ്ഞു എന്നും അതേ സമയം കൂടുതൽ സജീവമായ ഇടപെടൽ മുന്നിലെത്തി എന്നും പറയുന്നു പോസ്റ്റ്കൊളോണിയൽ പണ്ഡിതന്മാർ നടത്തിയ അത്തരം സജീവമായ ഇടപെടലിൻറെ ഉദാഹരണങ്ങൾ പശ്ചിമ ബംഗാളിലെ ഭൂരഹിതരായ ഗ്രാമീണർക്കിടയിൽ ഗായത്രി ചക്രവർത്തി സ്പിവാക് അദ്ധ്യാപിക എന്ന നിലയിൽ നടത്തിയ ഇടപെടലുകൾ ചർച്ച ചെയ്തപ്പോൾ നാം കണ്ടതാണ് എന്നാൽ ഇത് സമീപകാലത്ത് പോസ്റ്റ്കൊളോണിയൽ പണ്ഡിതന്മാർ അവരുടെ സാമൂഹിക രാഷ്ട്രീയ ആക്ടിവിസത്തെയും സാഹിത്യത്തിൻറെ മൂല്യത്തെയും പുനർവിചിന്തനം ചെയ്യാനുള്ള ശ്രമങ്ങൾക്ക് കാരണമായി ഹഗ്ഗൻറെ തന്നെ പുസ്തകമായ ഇൻറെർ ഡിസിപ്ലിനറി മെഷേഴ്സ് ധാർമ്മിക പ്രവർത്തനം ആവിഷ്കരിക്കുന്നതിന് സാഹിത്യത്തിൻറെ മൂല്യത്തിനായി ഒരു വാദം ഉന്നയിക്കാൻ കൃത്യമായി അത്തരമൊരു ശ്രമം നൽകുന്നു ഹഗ്ഗനെ ഉദ്ധരിക്കുന്നു "സാഹിത്യം ഒരു സുപ്രധാന ഉപകരണമാണ് കെനിയൻ എഴുത്തുകാരനായ എൻഗുഗി വാ തിയോങ്ഗോ Ngugi Wa Thiongo വിളിക്കുന്ന മനസ്സിൻറെ അപകോളനീകരണം നിരന്തരമായ പോരാട്ടത്തിൽ മുമ്പ് ചൂഷണം ചെയ്യപ്പെട്ടവരും നാടുകടത്തപ്പെട്ടവരുമായ ആളുകൾക്ക് ചിന്തയുടെ പുതിയ സാധ്യതകൾ സൃഷ്ടിക്കുന്നതിനും ജീവിക്കുന്നതിനും സാഹിത്യം ഒരു രൂപീകരണ പങ്ക് വഹിക്കുന്നു " അതിനാൽ സാഹിത്യപഠനം വിലമതിക്കാനാവാത്തതായി തുടരുന്നു അല്ലെങ്കിൽ വിമർശകർ അതിൻറെ മൂല്യം വീണ്ടും കണ്ടെത്തുന്നു ധാർമ്മിക പ്രവർത്തനം മനസ്സിലാക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചൂഷണം ചെയ്യപ്പെട്ടവർ പുറത്താക്കപ്പെട്ട ആളുകളുടെ പ്രവർത്തനത്തെ എങ്ങനെ നയിക്കാം ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു പോസ്റ്റ്കൊളോണിയൽ വിമർശകൻറെ ഉദാഹരണമായി സ്പിവക് അവർ ആക്ടിവിസത്തിന് പേരുകേട്ടതാണ് സ്പിവാക്കിൻറെ ഏറ്റവും പുതിയ പുസ്തകം 2012 ൽ പ്രസിദ്ധീകരിച്ച എസ്തെറ്റിക് എജുക്കേഷൻ ഇൻ ദി എറ ഓഫ് ഗ്ലോബലൈസേഷൻ ധാർമ്മിക പ്രവർത്തനത്തിൻറെ അടിസ്ഥാനമെന്ന നിലയിൽ സാഹിത്യത്തിനും സാഹിത്യ ഭാവനയ്ക്കും വളരെ ശക്തമായ ഒരു കേസ് നൽകുന്നു എന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ് അതിനാൽ സാഹിത്യത്തിൻറെ ഈ പുനർഭാവന സാഹിത്യത്തിൻറെ മൂല്യം സാഹിത്യ ഭാവനയുടെ മൂല്യം സാഹിത്യത്തിന് നമ്മുടെ നൈതിക പ്രതികരണങ്ങളെ വിവിധ പ്രതിസന്ധികളിലേക്ക് എങ്ങനെ പരിശീലിപ്പിക്കാം എന്നതാണ് ഭാവിയിൽ പോസ്റ്റ്കൊളോണിയൽ പഠനങ്ങൾ നീങ്ങുന്ന ലക്ഷ്യങ്ങളിലൊന്ന് ഇതിനൊപ്പം പോസ്റ്റ് കൊളോണിയൽ സാഹിത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ കോഴ്സിൻറെ അവസാനത്തിൽ എത്തുന്നു പ്രഭാഷണങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ ആസ്വദിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിലും പ്രധാനമായി ഈ കോഴ്സിന് നിങ്ങളെ സഹായിക്കാനും സാഹിത്യത്തെയും അതുപോലെ തന്നെ കൊളോണിയലിസത്തിൻറെ മായാത്ത അടയാളങ്ങൾ വഹിക്കുന്ന നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെയും ഒരു പുതിയ വെളിച്ചത്തിൽ കാണുവാൻ സഹായിക്കാൻ കഴിഞ്ഞുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ പ്രഭാഷണങ്ങളിലൂടെ പോയതിന് നന്ദി